അതിനാൽ അടുത്തതായി ആയി ആർഎൽ സർക്യൂട്ടുകളുടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഇതോടെ നിങ്ങളുടെ ആദ്യ ഓർഡർ സർക്യൂട്ട് അവസാനിക്കും ഞാൻ ഒരു എക്സസൈസ് മാത്രം ആണ് നൽകുന്നത് അതിനാൽ നിങ്ങൾ ഏതെങ്കിലും നല്ല പുസ്തകം തുറന്ന് നിങ്ങളുടേതായ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കും ഈ കോഴ്സിൽ പരിഹരിച്ച ഏത് പ്രശ്നവും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ വലിയ വ്യത്യാസം കാണില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഗണിക്കപ്പെട്ടു എന്നാണ് അതിനാൽ ചിത്രം 58 ൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിലേക്ക് നമുക്ക് നോക്കാം ടി യുടെ വാല്യൂ പൂജ്യത്തിനേക്കാൾ കൂടുതലുള്ള i നിർണ്ണയിക്കുക വളരെക്കാലമായി സ്വിച്ച് അടച്ചിട്ടുണ്ടെന്ന് കരുതുക ഈ സ്വിച്ച് ദീർഘനേരം അടച്ചിരുന്നതിനാൽ കറന്റ് ഒഴുകുകയും ഷോർട്ട് സർക്യൂട്ട് പാത ലഭിക്കുകയും ചെയ്യും അതായത് ഈ കറന്റ് ഇങ്ങനെ ഒഴുകും അതിനർത്ഥം ആ സമയത്ത് സ്വിച്ച് ദീർഘനേരം അടച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറും ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുമെന്ന് കരുതുക അപ്പോൾ നിലവിലെ കറന്റ് എന്തായിരിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ i 20 വോൾട്ട് 4 Ω കൊണ്ട് ഹരിക്കുക അതിനാൽ ഇത് 5 ആമ്പിയറാണ് കാരണം സ്വിച്ച് വളരെക്കാലം അടച്ചിരുന്നു അതിനാൽ കറന്റ് ഇതുപോലെ ഒഴുകും അത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ അത് ആക്ടീവ് ആവും ആ സാഹചര്യത്തിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറും അതിനാൽ കറന്റ് 204 ആകും അതിനാൽ 5 ആമ്പിയർ അതിനാൽ നിങ്ങൾ ഇനീഷ്യൽ ഇൻഡക്റ്റർ കറന്റ് I0 നോക്കിയാൽ അത് 5 ആമ്പിയർ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ സംഭവിക്കുന്നത് ഇൻഡക്റ്ററിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ i0 i0 5 ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഈ സ്വിച്ച് ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നതാണ് സ്വിച്ച് ഇപ്പോൾ t 0 ൽ തുറന്ന് ഒരു സ്റ്റെഡി സ്റ്റേറ്റ് എത്തി എന്ന് കരുതുക അതിനർത്ഥം ഇൻഡക്ടർ വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അതിനാൽ i 20 വോൾട്ട് ആയിരിക്കും ഇത് ഇപ്പോൾ തുറന്നിരിക്കുന്നു അതിനാൽ കറന്റ് ഇതുപോലെ ഒഴുകും അതിനാൽ ഇതാണ് നിലവിലെ സ്റ്റഡി സ്റ്റേറ്റിൽ ഉള്ള കരണ്ട് i അതിനാൽ ഇത് 204 6 ആയിരിക്കും അതായത് 2 ആമ്പിയർ അതിനാൽ i 2 ആമ്പിയർ ആയിരിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് i ∞ 2 ampere എന്ന് കാണാം ഇപ്പോൾ സർക്യൂട്ടിൽ നോക്കിയാൽ ഇവിടെ സ്വിച്ച് തുറന്നിരിക്കുകയാണ്ണെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപ്പോൾ RThevenin എന്തായിരിക്കും അത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യുന്നതുവഴി കണ്ടുപിടിക്കാം അതിനാൽ ഇത് 6 4 ആയിരിക്കും അതായത് 10Ω അപ്പോൾ RThevenin 10 Ω ഇനി ടൈം കോൺസ്റ്റന്റ് τ LR ആയിരിക്കും അതിനാൽ ഇത് 23 10 ആയിരിക്കും അതിനാൽ 115 സെക്കൻഡ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ τ LRThevenin 115 seconds ഇനി നമുക്ക് ഇവിടെ കാണാം i i ∞ i0 i ∞ e tτ ഇവിടെ i ∞ 2 i0 5 പിന്നെ വീണ്ടും i ∞ 2 പിന്നെ e 15 t അപ്പോൾ ഇത് i 2 3 e 15 t ആയിരിക്കും അപ്പോൾ ഇത് ഒരു എളുപ്പമായ ചോദ്യമായിരുന്നില്ലേ ഇതുപോലെ സർക്യൂട്ടിലെ സമയത്തിന്റെ എല്ലാ മൂല്യങ്ങൾക്കും i നിർണ്ണയിക്കുക എല്ലാ സമയവും എന്നു പറഞ്ഞാൽ 400 400 ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് 5 വോൾട്ട് കാണാം ഇവിടെ നോക്കൂ 5 വോൾട്ട് ഉണ്ട് ഇവിടെ 5 u അതാണ് സ്റ്റെപ്പ് ഇൻപുട്ട് ഇത് 0 2 Ω ഇത് 0 6 Ω ആണ് ഇത് 0 3 ഹെൻറി ആണ് അതിനാൽ ഒരു കാര്യം ബന്ധിപ്പിച്ച 5 വോൾട്ട് കുഴപ്പമില്ല പക്ഷേ ഇത് 5 u ആണ് 5u എന്നാൽ അത് t 0 ന് 0 ആണ് അത് t 0 ന് 5 ആണ് കാരണം u t 0 ന് 0 ആണ് അത് t 0 ന് 1 ആണ് ഇപ്പോൾ നമ്മൾ t0 കേസിൽ ഈ വോൾട്ടേജ് സോഴ്സ് 0 ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ സർക്യൂട്ട് ഇതുപോലെ ഷോർട്ട് ആയിരിക്കും കാരണം വോൾട്ടേജ് 0 ആണ് അതിനാൽ നമുക്ക് സർക്യൂട്ട് ഇതുപോലെ ഷോർട്ട് ആക്കാം പക്ഷേ 5 വോൾട്ട് അവിടെയുണ്ട് സർക്യൂട്ട് ഇതുപോലെ തുടരുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ ആ സമയത്ത് ഇനീഷ്യൽ കരണ്ട് ഇതിലൂടെ പോകും കാരണം ഇത് ഷോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഈ 0 6 Ω ഫലപ്രദമല്ല ഒന്നും ഇതിലൂടെ കടന്നുപോകില്ല അതിനാൽ 0 6 Ω റെസിസ്റ്റൻസ് യിലൂടെ യുള്ള കറന്റ് 0 ആണ് അതിനാൽ ഈ ഇനീഷ്യൽ കരണ്ട് i0 i0 i0 ആയിരിക്കും അത് എന്ത് തന്നെയായാലും അത് 50 2 ആയി മാറും അതിനാൽ ഇത് 25 ആമ്പിയർ ആയിരിക്കും അതിനർത്ഥം i0 i0 i0 25 ആമ്പിയർ എല്ലാറ്റിനും കാരണം t ൽ കുറവുള്ള സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് അതിനാൽ അടുത്ത പരിഹാരം പിന്നീട് ഉണ്ട് അതിനാൽ ഇപ്പോൾ അടുത്ത ചോദ്യം ഇപ്പോൾ 0 യിൽ കൂടുതലായി ആ സമയത്ത് ഈ 5 വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ടായിരിക്കും കാരണം u 0 ൽ കൂടുതലായാൽ അത് 1 ആണ് അതിനാൽ ഈ 5 വോൾട്ട് അവിടെയുണ്ട് ആ സമയത്ത് സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റിൽ ആയാൽ എന്തു ചെയ്യും ഇത് സ്റ്റഡീസ്റ്റേറ്റിൽ ആയാൽ പിന്നെയും ഇൻഡക്ടർ ഷോർട്ട് ആവും ഇൻഡക്ടർ ഷോർട്ട് ആയതിനാൽ റെസിസ്റ്ററീലൂടെ ഒരു കരണ്ടും കടന്നു പോകില്ല എല്ലാ കരണ്ടും ഇതിലൂടെ ആവും പോവുക നമ്മൾ ഈ സർക്യൂട്ടിൽ കെ വി എൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് i ∞ 5 ആയി കിട്ടും ഞാനിവിടെ കെ വി എൽ ഉപയോഗിക്കുകയാണ് അപ്പോൾ 5 0 2i 5 0 എന്ന് കിട്ടും അതിനാൽ i 100 250 ആമ്പിയർ ആവും ശരിക്കും ഈ കരണ്ട് i ∞ ആണ് അപ്പോൾ നമുക്ക് i ∞ i എന്ന് എഴുതാം അങ്ങനെയാവുമ്പോൾ i ∞ 50 i0 25 ആവും അതിനാൽ RThevenin ലഭിക്കാൻ ഈ വോൾട്ടേജ് സോഴ്സ് എല്ലാം ഷോർട്ട് ആക്കണം അതിനാൽ 0 2 Ω ഉം 0 6 Ω ഉം പാരലൽ ആവും അതിനാൽ RThevenin 0 6 ആയിരിക്കും അതിനാൽ ഇത് 0 2 0 6 0 8 ആയിരിക്കും 5 Ω ആയിരിക്കും ഇവിടെ τ LR ആണ് 3 ആയതിനാൽ നമുക്ക് τ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇപ്പോൾ അപ്പോൾ എല്ലാ കണക്കുകൂട്ടലും ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ഇവിടെ നമുക്ക് കാണാം RThevenin 0 15 Ω ആണ് പിന്നെ τ LRThevenin 2 സെക്കൻഡ് ആണ് 5 u എന്നാൽ t0 ൽ 0 ആവും t0 ൽ 5 ആവും പിന്നെ i0 i0 i0 25 ആമ്പിയർ ആണ് കാരണം സ്വിച്ച് മാറുന്ന സമയത്ത് ഇൻഡക്ടർ ഇൽ ഉള്ള കരണ്ട് പെട്ടെന്ന് മാറില്ല ഇനി t0 ആവുമ്പോൾ i ∞50 ആമ്പിയർ ആണ് നമുക്ക് അറിയാം t0 ആവുമ്പോൾ i i ∞ i0 i ∞ e tτ ആണ് എന്ന് അതിനാൽ ഈ വാല്യു എല്ലാം ഇടുന്നത് വഴി നമുക്ക് ഇക്വേഷൻ i 50 25 e 0 5t ആമ്പിയർ എന്ന് ലഭിക്കും ഇത് t0 ആകുമ്പോഴാണ് അപ്പോൾ നമുക്ക് t0 ആകുമ്പോൾ i 25 ആമ്പിയർ ഉം t0 ആകുമ്പോൾ i 50 25 e 0 5t ആമ്പിയർ ഉം കിട്ടുന്നതാണ് ഇത് നമുക്ക് i 25 25 25e 0 5t u എന്ന് എഴുതാവുന്നതാണ് ഇതിൽനിന്ന് നമുക്ക് 25 പുറത്ത് എടുത്ത് i 25 251 e 0 5t u എന്ന് എഴുതാവുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന u t0 ആവുമ്പോൾ 0 ഉം t0 ആവുമ്പോൾ 1 ഉം ആവും ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഈ ചിത്രത്തിൽ ഇതിൽ സ്വിച്ച് എ എന്ന സ്ഥലത്ത് ഇത് കുറേ നേരമായി നിൽക്കുകയാണ് ആണ് അത് t0 ആയപ്പോൾ ബി എന്ന സ്ഥലത്തേക്ക് മാറ്റി ഇതിന് നമുക്ക് t0 ആവുമ്പോൾ ഉള്ള i കാണണം കൂടാതെ v0 ഉം പിന്നെ v0 ഉം didt 0 ഉം കാണണം ഇവിടെ സ്വിച്ച് എ എന്ന സ്ഥലത്ത് കുറേ നേരമായി നിൽക്കുകയാണ് ആണ് അതിനാൽ സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റ് എത്തിയിട്ടുണ്ടാകും ഇവിടെ സ്വിച്ച് വളരെക്കാലം ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറുന്നു ഇനീഷ്യൽ കറന്റ് i0 ഇവിടെ KVL പ്രയോഗിക്കുന്നതിലൂടെ ലഭിക്കും ഇത് 12 വോൾട്ട്12 Ω 1 ആമ്പിയർ ആയിരിക്കും അതിനാൽ i0 i0 i0 1 ആമ്പിയർ ഇപ്പോൾ t 0 ൽ സ്വിച്ച് ബി ലോട്ട് മാറി അതിനാൽ ഈ ഭാഗം ഒറ്റപ്പെട്ടതാണ് സ്വിച്ച് ഇവിടെ മാറ്റിയിരിക്കുന്നു അതിനാൽ ആ സമയത്ത് i എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് t 0 ആവുമ്പോൾ ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആകും i∞ എന്നത് സ്റ്റഡി സ്റ്റേറ്റിൽ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ 2i ∞ 6 ഇവിടെ i0 1 ആമ്പിയറും i ∞ 3 ആമ്പിയറും അതിനാൽ i0 1 ആമ്പിയറും i0 i0 i0 1 ആമ്പിയറും t 0 സ്വിച്ച് b സ്ഥാനത്തുമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ ഈ സാഹചര്യത്തിൽ സ്വിച്ച് ബി സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ RThevenin 2 Ω ആവും RThevenin ലഭിക്കുന്നതിന് നമ്മൾ ഈ 2 പോയിന്റുകളിൽ നിന്ന് നോക്കും ആ സമയത്ത് നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ആകും അതിനാൽ അടിസ്ഥാനപരമായി RThevenin 2 Ω എൽ 1 ഹെൻട്രി ആയി കൊടുത്തിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ടൈം കോൺസ്റ്റന്റ് കണക്കാക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ τLRThevenin 0 5 സെക്കൻഡ് നമുക്ക് i ∞ 3 ആമ്പിയർ ആണെന്ന് അറിയാം കാരണം സ്വിച്ച് ബി എന്ന സ്ഥാനത്തും സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റിലും ആണ് ഇപ്പോൾ t 0 ന് i i ∞ i0 i ∞ e tτ എന്ന് നമുക്കറിയാം അതിനാൽ i∞ i0 τ എന്നിവയുടെ എല്ലാ മൂല്യങ്ങളും മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് i 3 e 2t ലഭിക്കും അല്ലെങ്കിൽ 3 2 e 2 t ആംപിയർ എന്ന് എഴുതാം അതിനാൽ അത് t 0 ആണ് രണ്ടാമത്തെ കാര്യം സ്വിച്ച് സ്റ്റഡി സ്റ്റേറ്റിൽ എ സ്ഥാനത്ത് ആയിരുന്നപ്പോൾ ഇൻഡക്ടറുകൾ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും കാരണം സ്വിച്ച് A സ്ഥാനത്തായിരിക്കുമ്പോൾ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കും ഇത് ഇൻഡക്ടർലൂടെയുള്ള വോൾട്ടേജും ഇതിലൂടെയുള്ള കരണ്ട് 1 ആമ്പിയറും അതായത് i0 i0 i0 1 ആമ്പിയർ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾ ഇവിടെ കെവിഎൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് 12 1 v 12 0 v 0 എന്നാൽ v0 0 വോൾട്ട് അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ആ സമയത്ത് സ്വിച്ച് വളരെക്കാലം എ സ്ഥാനത്തായിരുന്നു അതിനാൽ അതുകൊണ്ടാണ് v0 0 വോൾട്ട് ഇപ്പോൾ t 0 ൽ സ്വിച്ച് B സ്ഥാനത്ത് സ്ഥാപിക്കുമ്പോൾ നമ്മൾ കെവിഎൽ പ്രയോഗിക്കും നിലവിലെ i i0 i0 i0ആണെന്ന് കരുതുക അതിനാൽ ഈ ലൂപ്പിൽ നമുക്ക് കെവിഎൽ പ്രയോഗിക്കാവുന്നതാണ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 2 i0 v0 6 0 ആ ലൂപ്പിൽ മാത്രമേ I i0 പ്രയോഗിക്കാൻ കഴിയൂ കാരണം ഇൻഡക്ടറിലെ കറന്റ് മാറുന്ന സമയത്ത് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ 2 i0 v0 6 0 ലഭിക്കും അതിനാൽ സ്വിച്ച് ബി സ്ഥാനത്താണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറന്റ് സ്വിച്ച് ചെയ്യുമ്പോൾ i0 ആണ് അതിനാൽ നിങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അത് 2 i 0 v 6 0 ആയിരിക്കും എന്നാൽ i0 1 അതിനാൽ v v0 അത് 6 2 4 വോൾട്ട് ആയിരിക്കും ഇവിടെ v0 4 വോൾട്ട് നമുക്ക് v L didt ഉം അറിയാം അതിനാൽ നമുക്ക് L didt 0 v0 എഴുതാം നമ്മൾ didt 0 കണ്ടുപിടിക്കണം അതിനാൽ didt 0 v 0 L ആയിരിക്കും ഇവിടെ L എന്നത് 1 ഹെൻറിയും v0 4 വോൾട്ടുമാണ് അതിനാൽ ഇത് 4 ആമ്പിയർ പേർ സെക്കൻഡ് ആയിരിക്കും ഇപ്പോൾ അടുത്തത് ഈ പ്രശ്നമാണ് നിങ്ങൾ ഡിസി ട്രാൻസിറ്റ് പ്രശ്നം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ സ്വിച്ച് വളരെക്കാലം തുറന്നിരിക്കുന്നു സ്വിച്ച് t 0 ൽ അടച്ചിട്ടുണ്ടെങ്കിൽ i നിർണ്ണയിക്കുക ഇവിടെ സ്വിച്ച് വളരെക്കാലം തുറന്നിരുന്നു അതായത് ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് പെരുമാറുന്നത് i0 എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും i0 i0 i0 സ്വിച്ച് മാറുന്ന സമയത്ത് അത് മാറുകയില്ല അതിനാൽ നിങ്ങൾ i0 കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് 4 2Ω 2 Ω ആയിരിക്കും കാരണം ഇത് വളരെക്കാലം തുറന്നിരുന്നു അതിനാൽ ഇത് 44 1 ആമ്പിയർ ആയിരിക്കും അതിനാൽ ഇത് i0 i0 i0 1 ആമ്പിയർ ആണ് കാരണം ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ല ഇപ്പോൾ ഈ സ്വിച്ച് അടച്ചിരിക്കുന്നു ഇതിനർത്ഥം ഈ സ്വിച്ച് ഇപ്പോൾ അടച്ചിരിക്കുന്നു എന്നാണ് അതിനാൽ ആ സാഹചര്യത്തിൽ ഇത് ഈനാറ്റീവ് ആണ് ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും സർക്യൂട്ട് ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് കരുതുക i∞ 4 2 ആയിരിക്കും കാരണം 2 Ω റെസിസ്റ്റർ മാത്രം സജീവമാണ് കാരണം നിലവിലെ പാത ഇതുപോലെ ആയിരിക്കും അതിനാൽ ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഇത് അവിടെയില്ല അതിനാൽ ഇത് 2 ആമ്പിയറുകളായിരിക്കും അതാണ് സ്റ്റഡി സ്റ്റേറ്റ മൂല്യം i ∞ സ്വിച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് പാത ഇതുപോലെയായിരിക്കും അതിനാൽ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് RThevenin കണ്ടെത്താനാകും അതിനാൽ RThevenin 2 Ω ഈ 2Ω വരില്ല കാരണം സ്വിച്ച് അടച്ചതിനു ശേഷം റെസിസ്റ്റർ ഷോർട്ട് ആകും അതിനാൽ നിങ്ങൾക്ക് ടൈം കോൺസ്റ്റന്റ് കണ്ടെത്താനും കഴിയും τ LR അതിനാൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് i0 4 ampere RThevenin 2 Ω τ LRThevenin 1 ഹെൻറി2 Ω 12 സെക്കൻഡ് i ∞ 2 ആമ്പിയർ കൂടാതെ t 0 ന് i i∞ i0 i∞ e tτ എന്ന് നമുക്കറിയാം I∞ i0 τ എന്നിവയുടെ എല്ലാ മൂല്യങ്ങളും നിങ്ങൾ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i ആമ്പിയർ ലഭിക്കും ഇപ്പോൾ t ന്റെ എല്ലാ മൂല്യത്തിനും i യുടെ മൂല്യം വേണമെങ്കിൽ i 1 ampere t 0 കാരണം i0 1 ampere ഉം അത് t0 അതിനാൽ i 2 e 2 t 1 1 et 2 tu എന്ന് നമുക്ക് ഈ സമവാക്യം പോലെ എഴുതാം അതിനാൽ ഇത് i ∞ ആയിരിക്കും ഇത് 1 1 e 2t ആണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് t 0 ആയിരിക്കുമ്പോൾ u 0 എഴുതാം അത് 1 ampere ഉം t 0 u 1 ആകയാൽ അത് 1 1 e 2t ആയിരിക്കും 2 e 2t അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവയെല്ലാം എഴുതാനാകും അതിനാൽ ഈ പ്രശ്നവും മനസ്സിലാക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ മറ്റൊരു കാര്യം ഈ ചിത്രത്തിൽ t 0 സ്വിച്ച് S1 അടയ്ക്കുകയും 4 സെക്കൻഡ് കഴിഞ്ഞ് സ്വിച്ച് S2 അടയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് t 2 സെക്കന്റിനും t 5 സെക്കന്റിനും i നിർണ്ണയിക്കുക അതിനാൽ ഈ സർക്യൂട്ടിൽ t 0 സ്വിച്ച് S1 അടയ്ക്കുകയും 4 സെക്കൻഡ് കഴിഞ്ഞ് S 2 അടയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ 4 സെക്കന്റുകൾക്ക് ശേഷം S1 S2 എന്നിവ എന്നെന്നേക്കുമായി അടച്ചിരിക്കും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ തുടക്കത്തിൽ സ്വിച്ച് s1 തുറന്നിരുന്നു സ്വിച്ച് s2 ഉം തുറന്നിരുന്നു ആ സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സ് ഒരു ഫലവുമില്ല അതിനാൽ തുടക്കത്തിൽ ഈ i0 0 i0 i0 അതിനാൽ ഇത് 0 ആണ് കാരണം ഇത് തുറന്നിരുന്നു ഇതും തുറന്നിരിക്കുന്നു ഇപ്പോൾ S1 അടച്ചിരിക്കുന്നു s2 തുറന്നിരിക്കുന്നു S2 4 സെക്കൻഡ് കഴിഞ്ഞ് അടയ്ക്കും അതിനാൽ s1 അടച്ചിരിക്കുന്നു അതിനർത്ഥം ഇതാണ് പാത s2 തുറന്നിരിക്കുന്നതിനാൽ ഈ ശാഖയ്ക്ക് യാതൊരു ഫലവുമില്ല സ്ഥിരമായ അവസ്ഥയിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഈ സാഹചര്യത്തിൽ i∞ എന്ന സ്റ്റഡി സ്റ്റേറ്റ കരണ്ട് എന്തായിരിക്കും ഇവിടെ റെസിസ്റ്ററുകൾ സീരിസ് 4 Ω ഉം 6 Ω ഉം ആണ് ഇത് 40 വോൾട്ട് സോഴ്സ് അതിനാൽ ഇത് 4010 4 ആമ്പിയർ ആയിരിക്കും അതിനാൽ i∞ 4 ആമ്പിയർ I0 0 i ∞ 4 ആമ്പിയർ എന്നിവയുടെ പ്രാരംഭ മൂല്യം ഇപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ ഇവിടെ നിങ്ങൾ ടൈം കോൺസ്റ്റന്റ് കണ്ടെത്താൻ ശ്രമിച്ചാൽ s1 അടയ്ക്കുകയും s2 തുറക്കുകയും ചെയ്യുന്നു ഈ കേസിനായി RThevenin ലഭിക്കാൻ എന്നാൽ S2 തുറന്നിരിക്കുന്നതിനാൽ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ടായി നിങ്ങൾ ഈ ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ RThevenin 6 4 10 Ω ആയിരിക്കും കാരണം s2 തുറന്നിരിക്കുന്നതിനാൽ പിന്നെ τ LRThevenin L 5 ഹെൻറിയും RThevenin 10 Ω അതിനാൽ τ 12 സെക്കൻഡ് അതിനാൽ ഇതുപയോഗിച്ച് i ∞ 4 RThevenin 10 Ω τ 12 സെക്കൻഡ് നമ്മൾക്ക് ഈ ഫോർമുല അറിയാമായിരുന്നു i i ∞ i0 i ∞ e tτ ഈ മൂല്യങ്ങളെല്ലാം ഇട്ടാൽ നിങ്ങൾക്ക് i 4 ആമ്പിയർ ലഭിക്കും അത് 0 മുതൽ 4 സെക്കന്റുകൾക്കുള്ളിലാണ് കാരണം സ്വിച്ച് S1 അടച്ചിരിക്കുന്നു ഇപ്പോൾ 4 സെക്കൻഡിൽ കൂടുതലുള്ളപ്പോൾ ഇത് അടയ്ക്കുകയും ഇതും അടയ്ക്കുകയും ചെയ്യുന്നു അതായത് ഈ 2 സ്വിച്ചുകൾ എന്നെന്നേക്കുമായി അടച്ചിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ ഇത് അടച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് t 4 സെക്കൻഡിൽ അടച്ചിരിക്കുന്നു ഈ 2 സ്വിച്ചുകൾ എന്നെന്നേക്കുമായി അടച്ചിരിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ i ∞ t 4 സെക്കൻഡിൽ ഉള്ള ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണം അത് t t 0 4 ആണ് അതിനാൽ നിങ്ങൾ ഇനീഷ്യൽ വാല്യൂ സ്റ്റഡി സ്റ്റേറ്റിൽ മൂല്യവും കണ്ടെത്തേണ്ടതുണ്ട് തുടർന്ന് 4 ന് തുല്യമായതിനേക്കാൾ വലിയ ഇക്വേഷൻ ഉം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ കേസ് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ S2 അടച്ചിരിക്കുന്നു എന്നതിനർത്ഥം S1 S2 എന്നിവ എന്നെന്നേക്കുമായി അടച്ചിരിക്കുന്നു എന്നാണ് അതിനാൽ s2 പെട്ടെന്ന് അടയ്ക്കുന്നത് ഇൻഡക്റ്റർ കറന്റിനെ ബാധിക്കില്ല കാരണം ഇൻഡക്ടറിലൂടെ കറന്റ് പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിനാൽ ഈ ഇക്വേഷനിൽ t 4 ൽ ഇനീഷ്യൽ കരണ്ട് i 4 സ്വിച്ച് s2 ഈ സമയത്ത് അടച്ചിരിക്കുന്നതിനാൽ ഇവിടെ t 4 ഇടുക നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ സർക്യൂട്ട് വരയ്ക്കും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഈ വീഡിയോ പ്രഭാഷണം എപ്പോഴും കാണുമ്പോൾ അത് ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഒരു നോട്ട്ബുക്കിൽ സർക്യൂട്ട് വരയ്ക്കും തുടർന്ന് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും അതിനാൽ t 4 സെക്കൻഡ് ഇടുക i4 i 4 i 4 ഏകദേശം 4 ആമ്പിയർ ആണെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം 1 e 8 e 8 വളരെ ചെറുതാണ് അതിനാൽ ഏകദേശം 4 സെക്കൻഡ് ഇപ്പോൾ v നോഡ് എയിലെ വോൾട്ടേജായിരിക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലെത്തിയെന്ന് കരുതുക അതിനാൽ ഇത് അടച്ചു ഇതും അടച്ചിരിക്കുന്നു കൂടാതെ നോഡ് A ൽ വോൾട്ടേജ് v എന്നാൽ v ∞ സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം എന്നാണ് അർത്ഥമാക്കുന്നത് ആ സമയത്ത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ആ സമയത്ത് കെവിഎൽ പ്രയോഗിക്കുക ഈ വോൾട്ടേജ് v 40 വോൾട്ട് കാരണം ഈ 40 വോൾട്ടും ഇവിടെ 10 വോൾട്ടും ഉണ്ട് ഈ v ∞ എന്നാൽ 6 Ω റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് എന്നാണ് അതിനാൽ നോഡൽ അനാലിസിസ് നമ്മൾ ഇതിനകം പഠിച്ചിട്ടുണ്ട് അതിനാൽ നേരിട്ട് ഞാൻ ഈ സമവാക്യം എഴുതുന്നത് നോഡ് A v v ∞ എന്നതിൽ KCL പ്രയോഗിച്ചുകൊണ്ടാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ കെവിഎൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് 4 2 v6 ലഭിക്കും v ഒന്നുമല്ല v ∞ ആണ് ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം ഈ v അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ v കണ്ടെത്തുകയാണെങ്കിൽ അത് 18011 വോൾട്ട് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ i∞ v6 ആയിരിക്കും കാരണം ആ 6 Ω റസിസ്റ്റൻസ് നേരെ നമ്മൾക്ക് ലഭിച്ച വോൾട്ടേജ് v∞ ആണ് അതിനാൽ ഇത് 18011 6 ആകും കാരണം v∞ 18011 ഞാൻ v∞ എഴുതിയിട്ടില്ല പക്ഷേ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ i 2 727 ആമ്പിയർ ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇൻഡക്ടർ ടെർമിനലിൽ തെവേനിൻ റസിസ്റ്റൻസ് ലഭിക്കാൻ അത് വളരെ ലളിതമാണ് അത് 6 424 2 ആയിരിക്കും നോട്ട്ബുക്കിൽ സർക്യൂട്ട് വരയ്ക്കാൻ എനിക്ക് തിരികെ പോകേണ്ടതില്ല നിങ്ങൾക്ക് അത് ലഭിക്കും അത് 223 Ω ആയിരിക്കും അതിനാൽ τLRThevenin ആയിരിക്കും അതിനാൽ 5223 1522 സെക്കൻഡ് അതിനാൽ 75 ഇക്വേഷൻ ഇൽ നിന്ന് ടി 0 ന് തുല്യമല്ല 4 സെക്കന്റിന് തുല്യമാണെന്ന് നമുക്കറിയാം അതിനാൽ ഇക്വേഷൻ 75 നിന്ന് അത് i ∞ i i ∞ e ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി i ∞ i i ∞ e t 0 4 സെക്കൻഡ് കാരണം S2 4 സെക്കൻഡുകൾക്ക് ശേഷം അടച്ചു അതിനാൽ i∞ i τ എന്നിങ്ങനെയുള്ള എല്ലാ മൂല്യങ്ങളും ചേർത്താൽ നിങ്ങൾക്ക് i 2 727 4 2 727 e 22 15 ലഭിക്കും അതിനാൽ i 2 727 1 273 e 1 467 ആമ്പിയർ t0 ലേക്ക് i0 t 0 t 4 ലേക്ക് i 4 കൂടാതെ t 4 ന് നമുക്ക് ഇത് ലഭിക്കും t 2 സെക്കൻഡിലും t 5 സെക്കൻഡിലും i യുടെ മൂല്യം കണ്ടെത്തണം നമുക്ക് അതിനാൽ i 4 3 93 ആംപിയർ ഇപ്പോൾ നമുക്ക് t 5 സെക്കൻഡിൽ i യുടെ മൂല്യം കണ്ടെത്താൻ കഴിയും അതിനാൽ i 2 273e 1 467 3 02 ആമ്പിയർ ഇതോടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിസി സർക്യൂട്ട് നിർത്തും 23 വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതോടെ ഡിസി ഭാഗങ്ങളുടെ എല്ലാ ഭാഗങ്ങളും മൂടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ സിംഗിൾ ഫേസ് എസി സർക്യൂട്ടുകൾ പഠിക്കും DC സർക്യൂട്ടിൽ എല്ലാ 6 അധ്യായങ്ങൾക്കും നമ്മൾ നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാൽ എസി സർക്യൂട്ടുകളിൽ കോംപ്ലക്സ് നമ്പർ ഉൾപ്പെടും അതിനാൽ ഞങ്ങൾ ഓരോ അധ്യായത്തിനും സംഖ്യകളുടെ എണ്ണം 8 അല്ലെങ്കിൽ 9 ആയി പരിമിതപ്പെടുത്തും കാരണം കോംപ്ലക്സ് നമ്പർ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ കുറവായിരിക്കാം പക്ഷേ ഏത് നല്ല പുസ്തകവും പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനാൽ അടുത്ത വിഷ്വൽ പ്രഭാഷണത്തിൽ കാണാം വളരെ നന്ദി